എഞ്ചിനീയർമാർക്കുള്ള കോഴ്സ് ഡാറ്റാ സയൻസിന്റെ മൊഡ്യൂളിലെ 4 ലെ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ഈ പ്രഭാഷണത്തിൽ ഞങ്ങൾ നിങ്ങളെ ആർ ഡാറ്റാ ഫ്രെയിം ഒബ്ജക്റ്റുകളിലേക്ക് പരിചയപ്പെടുത്താൻ പോകുന്നു ഡാറ്റാ ഫ്രെയിമുകൾ എങ്ങനെ സൃഷ്ടിക്കാം ഡാറ്റാ ഫ്രെയിമിന്റെ വരികളും നിരകളും എങ്ങനെ ആക്സസ് ചെയ്യാം ഡാറ്റ ഫ്രെയിമുകൾ എങ്ങനെ എഡിറ്റുചെയ്യാം ഡാറ്റാ ഫ്രെയിമിന്റെ പുതിയ വരികളും നിരകളും എങ്ങനെ ചേർക്കാം ഏത് ഡാറ്റ ഫ്രെയിം ആണെന്ന് ആദ്യം നോക്കാം ടാബുലാർ ഡാറ്റ സംഭരിക്കുന്നതിന് നിങ്ങൾ ഉപയോഗിക്കുന്ന R ന്റെ ജനറിക് ഡാറ്റ ഒബ് ജക്റ്റുകളാണ് ഡാറ്റ ഫ്രെയിം ആർ പ്രോഗ്രാമിംഗിലെ ഏറ്റവും ജനപ്രിയമായ ഡാറ്റ ഒബ്ജക്റ്റുകളാണ് ഡാറ്റ ഫ്രെയിമുകൾ കാരണം ടാബുലാർ ഫോമിലെ ഡാറ്റ കാണാൻ ഞങ്ങൾക്ക് സുഖകരമാണ് ഒരു മാട്രിക്സിന്റെ ഓരോ നിരയും വ്യത്യസ്ത ഡാറ്റ തരത്തിലായിരിക്കാവുന്ന മാട്രിക്സുകൾ ഡാറ്റ ഫ്രെയിമുകൾ പഠിപ്പിക്കാൻ കഴിയും R ൽ ഒരു ഡാറ്റ ഫ്രെയിം എങ്ങനെ സൃഷ്ടിക്കാമെന്ന് നമുക്ക് നോക്കാം ഇവിടെ കോഡ് ഒരു ഡാറ്റ ഫ്രെയിം എങ്ങനെ സൃഷ്ടിക്കാമെന്ന് കാണിക്കുന്നു മൌസ് ചൂണ്ടിക്കാണിക്കുന്ന കമാൻഡ് ഒരു വെക്റ്റർ സൃഷ്ടിക്കുന്നു അത് ഒരു സംഖ്യാ വെക്റ്ററാണ് അതിൽ 1 2 3 എന്നിവ അടങ്ങിയിരിക്കുന്നു രണ്ടാമത്തെ കമാൻഡ് ഒരു പ്രതീക വെക്റ്റർ സൃഷ്ടിക്കുന്നു അതിൽ 3 സ്ട്രിംഗുകൾ അടങ്ങിയിരിക്കുന്നു അതിൽ സ്കിലാബ് ജാവ ഇവിടെയുള്ള മൂന്നാമത്തെ കമാൻഡ് പ്രോട്ടോടൈപ്പിംഗിനും ആദ്യ സ്കെയിലിനും എൻ ട്രികൾ ഉള്ള മറ്റൊരു പ്രതീക വെക്റ്റർ സൃഷ്ടിക്കുന്നു നിങ്ങൾ ഡാറ്റാ ഫ്രെയിം സൃഷ്ടിക്കുന്ന രീതി ഡാറ്റാ ഡോട്ട് ഫ്രെയിം കമാൻഡ് ഉപയോഗിക്കുകയും തുടർന്ന് നിങ്ങൾ സൃഷ്ടിച്ച ഓരോ ഘടകങ്ങളും ഫംഗ്ഷൻ ഡാറ്റ ഡോട്ട് ഫ്രെയിമിലേക്ക് കൈമാറുകയും ചെയ്യുന്നു നിങ്ങൾ ഡാറ്റാ ഫ്രെയിം df പ്രിന്റുചെയ്യുമ്പോൾ ഈ കമാൻഡ് ഒരു ഡാറ്റ ഫ്രെയിം df സൃഷ്ടിക്കും ഇങ്ങനെയാണ് ട്ട് പുട്ട്കാണപ്പെടുന്നത് അതിനാൽ നിങ്ങൾ സൃഷ്ടിച്ച വേരിയബിളുകളുടെ പേരുകൾ നിരകളായി എടുക്കുകയും ഓരോ നിരയിലെയും എൻ ട്രികൾ ഒരേ ഡാറ്റ തരത്തിലാണെന്നും ഞങ്ങൾക്ക് കാണാൻ കഴിയും ഒരു ഡാറ്റാ ഫ്രെയിം സൃഷ്ടിക്കുമ്പോൾ നിങ്ങൾ തൃപ്തിപ്പെടുത്തേണ്ട വ്യവസ്ഥയാണിത് ടെക്സ്റ്റ് ഫയലിൽ നിന്ന് നിങ്ങൾ ചെയ്യേണ്ട രീതിയിലേക്ക് ഡാറ്റ ഇറക്കുമതി ചെയ്യുന്നതിലൂടെ ഡാറ്റ ഫ്രെയിമുകളും സൃഷ്ടിക്കാൻ കഴിയും നിങ്ങൾ റീഡ് ഡോട്ട് ടേബിളും വാക്യഘടനയും എന്ന് വിളിക്കുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കേണ്ടതുണ്ട് എന്നതാണ് അതിനായി നിങ്ങളുടെ വായന ഒരു പുതിയ ഡാറ്റാ ഫ്രെയിമിലേക്ക് നിങ്ങൾ നിയോഗിക്കുന്നു അതിൽ നിന്ന് നിങ്ങൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ഡാറ്റയ്ക്ക് പേരിടുക തുടർന്ന് ഡോട്ട് ടേബിൾ വായിക്കുക എന്നിവ ആർഗ്യുമെന്റിൽ എടുക്കുന്നു ഫയലിന്റെ പാത ഡാറ്റ ഇടങ്ങളാൽ വേർതിരിക്കുന്ന ഒരു സം ടെക്സ്റ്റ് ഫയലിൽ നിങ്ങൾക്ക് ഡാറ്റയുണ്ടെന്ന് പറയട്ടെ നിങ്ങൾ ഈ കമാൻഡ് read table പാത്തും വായിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് ഡാറ്റ ഇറക്കുമതി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഫയലിന്റെ പാത നിങ്ങളുടെ ഒഎസിനെ ആശ്രയിച്ച് നിങ്ങൾ ബാക്ക്സ്ലാഷ് ഉപയോഗിക്കേണ്ടതുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഓസ് ആശ്രിതനാണ് ഈ പാത്ത് സ് പെസിഫിക്കേഷൻ ഡാറ്റയുടെ എൻട്രികൾക്കിടയിൽ വേർതിരിച്ച സ്ഥിരസ്ഥിതി സ്പെയ്സാണെന്ന് എൻട്രികൾ തമ്മിൽ വേർതിരിച്ചറിയാൻ ഒരു സെപ്പറേറ്റർ വ്യക്തമാക്കാം ഡാറ്റ ഇറക്കുമതി ചെയ്യുന്നതിനും ഡാറ്റാ ഫ്രെയിം സൃഷ്ടിക്കുന്നതിനുമുള്ള വാക്യഘടന കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഇത് എങ്ങനെ കാണപ്പെടുന്നു പുതിയ ഡാറ്റാ ഫ്രെയിം നിങ്ങൾ ഫയലിന്റെ പാത വ്യക്തമാക്കേണ്ട ഡോട്ട് ടേബിൾ വായിക്കുന്നു തുടർന്ന് ഡാറ്റയുടെ എൻട്രികൾ വേർതിരിക്കുന്നതിന് ഉപയോഗിക്കുന്ന സെപ്പറേറ്ററും നിങ്ങൾക്ക് വ്യക്തമാക്കാം സെപ്പറേറ്റർ ഒരു കോമ അല്ലെങ്കിൽ ടാബ് മുതലായവ ആകാം അതിനാൽ ഞങ്ങൾ ഇവിടെ കണ്ടത് നിങ്ങൾക്ക് എവിടെയായിരുന്നാലും ഡാറ്റ ഫ്രെയിമുകൾ സൃഷ്ടിക്കാൻ കഴിയും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകം തന്നെ ചില ഫോർമാറ്റിൽ നിലവിലുള്ള ഡാറ്റ ഉപയോഗിക്കാനും ഡാറ്റ ഫ്രെയിമുകൾ സൃഷ്ടിക്കുന്നതിന് അത് ഉപയോഗിക്കാനും കഴിയും എന്നതാണ് ഇപ്പോൾ ഞങ്ങൾ ഒരു ഡാറ്റ ഫ്രെയിം സൃഷ്ടിച്ചു ഒരു ഡാറ്റാ ഫ്രെയിമിന്റെ വരികളും നിരകളും എങ്ങനെ ആക്സസ് ചെയ്യാമെന്ന് ഞങ്ങൾ കാണേണ്ടതുണ്ട് അതിനുള്ള വാക്യഘടന ഡാറ്റാ ഫ്രെയിമും 2 ആർഗ്യുമെന്റുകളും കൈമാറേണ്ടതുണ്ട് ആദ്യ ആർഗ്യുമെന്റ് വാൽ 1 ഒരു ഡാറ്റാ ഫ്രെയിമിന്റെ വരികളെയാണ് സൂചിപ്പിക്കുന്നത് രണ്ടാമത്തെ ആർഗ്യുമെന്റ് വാൽ 2 ഒരു ഡാറ്റ ഫ്രെയിമിന്റെ നിരകളെ സൂചിപ്പിക്കുന്നു അതിനാൽ ഈ വാൽ 1 വാൽ 2 എന്നിവ ഒരു കോമ മുതലായവയുടെ ഒന്ന് മുതൽ 2 അല്ലെങ്കിൽ സി വരെ മൂല്യങ്ങളുടെ നിരയാകാം നിങ്ങൾ Val2 മാത്രം വ്യക്തമാക്കുന്നുവെങ്കിൽ ഇവിടെ നൽകിയിരിക്കുന്ന വാക്യഘടനയാണ് l 2 ന്റെ df ഇത് നിരകളുടെ ഗണത്തെ സൂചിപ്പിക്കുന്നു നിങ്ങൾ ഡാറ്റാ ഫ്രെയിമിൽ നിന്ന് ആക്സസ് ചെയ്യേണ്ടതുണ്ട് സൃഷ്ടിച്ച ഡാറ്റാ ഫ്രെയിമിന്റെ ഒന്നും രണ്ടും വരി ആക്സസ് ചെയ്യണമെങ്കിൽ ഈ കോഡിൽ ഞങ്ങൾക്ക് അത് കാണാൻ കഴിയും 1 മുതൽ 2 കോമ വരെ ഇടേണ്ട വരികൾ ആക്സസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും എല്ലാ നിരകളും ആക് സസ്സുചെയ്യേണ്ടതുണ്ടെന്ന് നിരയിലെ ഒന്നും വ്യക്തമാക്കുന്നില്ല മുമ്പത്തെ സ്ലൈഡിൽ നിങ്ങൾ സൃഷ്ടിച്ച ഡാറ്റ ഫ്രെയിമിൽ നിന്ന് നിങ്ങൾക്ക് ആദ്യത്തെ 2 വരികൾ ആക്സസ് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് ആദ്യത്തെ 2 നിരകൾ ആക്സസ് ചെയ്യണമെങ്കിൽ വരികൾക്കുപകരം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യം ഒരു ഇടം ഉപേക്ഷിക്കേണ്ടതുണ്ട് തുടർന്ന് കോമ നിങ്ങൾ ആക് സസ് ചെയ്യേണ്ട നിരകളുടെ പട്ടിക നിങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട് അത് ഈ കമാൻഡിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന ഒന്ന് മുതൽ 2 വരെ ആണ് കൂടാതെ കൺസോൾ output ട്ട് പുട്ടിൽ ഫലം ഞങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾ സൃഷ്ടിച്ച ഡാറ്റയുടെ ആദ്യ 2 നിരകൾ ആക്സസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന നിര പേരുകൾ ഉപയോഗിച്ച് ഒന്നും രണ്ടും നിരകൾ ആക്സസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനാൽ 1 മുതൽ 2 വരെ d f വ്യക്തമാക്കുന്നതിലൂടെ ഇത് ഒരു ഡാറ്റാ ഫ്രെയിമിന്റെ നിരകൾ ആക് സസ് ചെയ്യുന്നതിനുള്ള മറ്റൊരു മാർഗമാണ് ചിലപ്പോൾ ഡാറ്റാ ഫ്രെയിമിന്റെ ഉപസെറ്റ് തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടാകും ചില വ്യവസ്ഥകളെ അടിസ്ഥാനമാക്കി അതിനാൽ നിങ്ങൾ ചെയ്യുന്ന രീതി നിങ്ങൾ ഡാറ്റാ ഫ്രെയിം തിരഞ്ഞെടുക്കേണ്ട നിബന്ധനകളെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് വ്യവസ്ഥകൾ ഉണ്ടായിരിക്കണം കൂടാതെ നിങ്ങൾക്ക് ഒരു ഡാറ്റ ഫ്രെയിമും ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് ലഭിച്ചുകഴിഞ്ഞാൽ ഡാറ്റാ ഫ്രെയിമിന്റെ ഉപസെറ്റ് ലഭിക്കുന്നതിന് കമാൻഡ് ഉപസെറ്റ് ഉപയോഗിക്കാം നമുക്ക് ഒരു ഉദാഹരണത്തിലൂടെ ചിത്രീകരിക്കാം ഇപ്പോൾ ഞങ്ങൾ pd എന്ന പേര് ഉപയോഗിച്ച് ഒരു ഡാറ്റ ഫ്രെയിം സൃഷ്ടിക്കാൻ പോകുന്നു ഞങ്ങൾക്ക് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ സെന്തിലും സാമും ഉള്ള പേരിലുള്ള നിരകളായി പേര് മാസത്തെ രക്തത്തിലെ പഞ്ചസാരയും രക്തസമ്മർദ്ദവുമുള്ള ആദ്യ വരി ഉപയോഗിക്കുന്നു രക്തത്തിലെ പഞ്ചസാരയിൽ ഞങ്ങൾക്ക് രക്തത്തിലെ പഞ്ചസാര മൂല്യങ്ങളുടെ വെക്റ്റർ ഉണ്ട് രക്തസമ്മർദ്ദത്തിൽ നിങ്ങൾക്ക് രക്തസമ്മർദ്ദ മൂല്യങ്ങളുടെ ഒരു വെക്റ്റർ ഉണ്ട് നിങ്ങൾക്ക് ഡാറ്റാ ഫ്രെയിം പ്രിന്റുചെയ്യാനും ഇത് എങ്ങനെ കാണാമെന്നും കാണാൻ കഴിയും അത് തോന്നുന്നു എന്നാൽ ആ ഡാറ്റാ ഫ്രെയിമിൽ ഞാൻ എക്സ്ട്രാക്റ്റുചെയ്യാൻ ആഗ്രഹിക്കുന്നത് പേര് സെന്തിൽ അല്ലെങ്കിൽ രക്തത്തിലെ പഞ്ചസാരയുടെ മൂല്യം 150 ൽ കൂടുതലുള്ള ഒരു ഉപസെറ്റാണ് ഇപ്പോൾ എനിക്ക് പുതിയ ഡാറ്റാ ഫ്രെയിം ഈ p d 2 ഉപയോഗിച്ച് പ്രിന്റുചെയ്യാൻ കഴിയും ഫലം ഇവിടെ കൺസോൾ output ട്ട് പുട്ടിൽ കാണിച്ചിരിക്കുന്നു യഥാർത്ഥ ഡാറ്റാ ഫ്രെയിമിൽ എല്ലാ എൻ ട്രികളും അടങ്ങിയിരിക്കുന്നു പക്ഷേ പി ഡി 2 ൽ നിന്നുള്ള പുതിയ ഡാറ്റ ഈ എൻ ട്രികൾ തിരഞ്ഞെടുക്കുന്നു കാരണം ആദ്യ എൻ ട്രി തിരഞ്ഞെടുക്കപ്പെടുന്നു കാരണം പേര് സെന്റിൽ രണ്ടാമത്തെ എൻ ട്രി തിരഞ്ഞെടുക്കപ്പെടുന്നു കാരണം മൂന്നാമത്തെ എൻ ട്രി തിരഞ്ഞെടുക്കപ്പെടുന്ന സെന്റിൽ പേര് സെന്റിൽ ആണ് കാരണം രക്തത്തിലെ പഞ്ചസാരയുടെ മൂല്യം 150 ൽ കൂടുതലാണ് ഡാറ്റാ ഫ്രെയിമുകൾ എങ്ങനെ എഡിറ്റുചെയ്യാമെന്ന് ഇപ്പോൾ ഞങ്ങൾ കാണും ലിസ്റ്റ് പോലെ നിങ്ങൾക്ക് നേരിട്ടുള്ള അസൈൻമെന്റ് വഴി ഡാറ്റ ഫ്രെയിമുകൾ എഡിറ്റുചെയ്യാൻ കഴിയും ഈ ഡാറ്റാ ഫ്രെയിം ഞങ്ങൾ മുമ്പ് കണ്ടു ഈ കമാൻഡ് ഉപയോഗിച്ച് ഞങ്ങൾ ഒരു ഡാറ്റ ഫ്രെയിം സൃഷ്ടിച്ച ഘടകങ്ങൾ അടങ്ങിയ വെക്റ്റർ 1 വെക്റ്റർ 2 വെക്റ്റർ 3 ഞങ്ങൾക്ക് ആ ഡാറ്റ ഫ്രെയിമും അച്ചടിക്കാൻ കഴിയും ഇപ്പോൾ എനിക്ക് വെക്റ്റർ 2 ലെ രണ്ടാമത്തെ എൻ ട്രി ഒരു ആർ ആയി മാറ്റാൻ താൽ പ്പര്യമുണ്ടെങ്കിൽ സ് സിലാബിന് പകരം എനിക്ക് അത് നേടാൻ കഴിയും ഈ കമാൻഡ് ഉപയോഗിച്ച് ഞാൻ ആക് സസ് ചെയ്യുന്നു പകരം വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു രണ്ടാമത്തെ വരി രണ്ടാമത്തെ നിരയിലെ ഘടകം R സ്ട്രിംഗ് 2 കോമ r ന്റെ ഈ കമാൻഡ് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഫലങ്ങളിൽ കാണിച്ചിരിക്കുന്നതുപോലെ Scilab എൻ ട്രി R ഉപയോഗിച്ച് R ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുക എന്നതാണ് ഇത് ചെയ്യുന്നത് സ്കിലാബിനെ ആർ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിച്ചുവെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും നേരിട്ടുള്ള അസൈൻമെന്റ് വഴി നിങ്ങൾക്ക് ഡാറ്റ ഫ്രെയിം എഡിറ്റുചെയ്യാൻ കഴിയും അടുത്തതായി എഡിറ്റ് കമാൻഡ് ഉപയോഗിച്ച് ഒരു ഡാറ്റ ഫ്രെയിം ഞങ്ങൾ കാണുന്നു അതിനാൽ ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഉദാഹരണത്തിന് ഡാറ്റാ ഫ്രെയിമിന്റെ ഒരു ഉദാഹരണം സൃഷ്ടിക്കേണ്ടതുണ്ട് കമാൻഡ് ഡാറ്റ ഡോട്ട് ഫ്രെയിം ഉപയോഗിച്ച് ഞാൻ ഡാറ്റാ ഫ്രെയിമിന്റെ ഒരു ഉദാഹരണം സൃഷ്ടിക്കുകയും എന്റെ പട്ടികയായി പേരിടുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് ഒരു ശൂന്യമായ ഡാറ്റ ഫ്രെയിം സൃഷ്ടിക്കുന്നു എന്റെ ഡാറ്റ ഫ്രെയിമിലെ എൻ ട്രികൾ എഡിറ്റുചെയ്യാൻ എനിക്ക് ഈ എഡിറ്റ് കമാൻഡ് ഉപയോഗിക്കാം അത് ചെയ്യുന്നതിന് ഞാൻ ചെയ്തത് എന്റെ പട്ടിക ഒരു ഫ്രെയിം സൃഷ്ടിക്കുന്നതിന് എഡിറ്റുചെയ്യുന്നതെന്തും ഞാൻ നിയോഗിക്കുകയാണ് അതിനാൽ ഞാൻ ഈ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അത് ഒരു വിൻഡോ പോപ്പ് അപ്പ് ചെയ്യും ഇവിടെ എനിക്ക് പൂരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വിശദാംശങ്ങൾ പൂരിപ്പിക്കാൻ കഴിയും തുടർന്ന് ഞാൻ അടയ്ക്കുമ്പോൾ ഇത് എന്റെ പട്ടികയുടെ പേരിനൊപ്പം ഡാറ്റ ഫ്രെയിമായി സംരക്ഷിക്കും അടുത്തതായി ഡാറ്റാ ഫ്രെയിമിലേക്ക് അധിക വരികളും നിരകളും എങ്ങനെ ചേർക്കാമെന്ന് ഞങ്ങൾ കാണും ഞങ്ങൾ ഉപയോഗിച്ച അതേ ഉദാഹരണം ഞങ്ങൾ തുടരും നിങ്ങൾ നേരത്തെ സൃഷ്ടിച്ച ഡാറ്റാ ഫ്രെയിമിലേക്ക് മറ്റൊരു വരി ചേർക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് ഇപ്പോൾ പറയാം അതിനാൽ r ബൈൻഡ് ഉപയോഗിച്ച് ഞങ്ങൾക്ക് അധിക വരി ചേർക്കാനും c bind കമാൻഡ് ഉപയോഗിക്കുന്ന ഒരു അധിക നിര ചേർക്കാനും കഴിയും r ബൈൻഡിംഗ് കമാൻഡ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഒരു അധിക വരി ചേർക്കാൻ കഴിയുമെന്ന് നോക്കാം അതിനുള്ള വാക്യഘടന r ബൈൻഡ് നിങ്ങൾ ചേർക്കേണ്ട ഡാറ്റാ ഫ്രെയിമും പുതിയ വരിയിലെ എൻ ട്രികളും r ബൈൻ ഡ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഓരോ നിരയിലെയും ഡാറ്റ തരങ്ങൾ എൻ ട്രി ഇതിനകം നിലവിലുള്ള വരികളുള്ള ഡാറ്റ തരങ്ങൾ ആയിരിക്കണം അതിനാൽ വെക് 1 എന്ന നിരയിൽ ഞങ്ങളുടെ പക്കലുള്ള മറ്റൊരു വരി എൻ ട്രി ഞങ്ങൾ സൃഷ്ടിക്കുന്നു അത് ഞങ്ങൾക്ക് ഒരു സംഖ്യാ ഡാറ്റ തരം 4 ഉണ്ട് നിര 2 ൽ ഞങ്ങൾക്ക് ഒരു പ്രതീക വേരിയബിൾ സി ഉണ്ട് നിര 3 ൽ സ്കെയിൽ അപ്പ് ചെയ്യുന്നതിന് ഞങ്ങൾക്ക് ഒരു പ്രതീക വേരിയബിൾ ഉണ്ട് അതിനാൽ ഈ കമാൻഡ് ഡാറ്റ ഫ്രെയിമിലേക്ക് വരി ചേർക്കുന്നു നിങ്ങൾ ഡാറ്റ ഫ്രെയിം അച്ചടിക്കുമ്പോൾ യഥാർത്ഥ ഡാറ്റ ഫ്രെയിമിലേക്ക് വരി ചേർത്തുവെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഒരു നിര എങ്ങനെ ചേർക്കാമെന്ന് നോക്കാം ഒരു നിര ചേർക്കുന്നത് ലളിതമാണ് അതിനുള്ള വാക്യഘടന ഒരു സി ബൈൻഡ് കമാൻഡ് ഉപയോഗിച്ച് ഇത് ചെയ്യാൻ കഴിയും c യഥാർത്ഥ ഡാറ്റാ ഫ്രെയിമും പുതിയ നിരയ്ക്കുള്ള എൻ ട്രികളും ബന്ധിപ്പിക്കുക ഇപ്പോൾ ഞാൻ ഒരു പുതിയ കോളം കോൾ vec4 ചേർക്കാൻ പോകുന്നു അതിൽ 10 20 30 40 എൻ ട്രികൾ അടങ്ങിയിരിക്കുന്നു കൂടാതെ നിങ്ങൾ ഇതിലേക്ക് ഒരു പുതിയ നിര ചേർത്ത് പുതിയ ഡാറ്റ ഫ്രെയിം അച്ചടിക്കുമ്പോൾ നിലവിലുള്ള ഡാറ്റാ ഫ്രെയിമിലേക്ക് ഈ വെക് 4 ചേർത്തുവെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഒരു നിര എങ്ങനെ ചേർക്കാമെന്ന് നോക്കാം ഒരു നിര ചേർക്കുന്നത് ലളിതമാണ് അതിനുള്ള വാക്യഘടന ഒരു സി ബൈൻഡ് കമാൻഡ് ഉപയോഗിച്ച് ഇത് ചെയ്യാൻ കഴിയും c യഥാർത്ഥ ഡാറ്റാ ഫ്രെയിമും പുതിയ നിരയ്ക്കുള്ള എൻ ട്രികളും ബന്ധിപ്പിക്കുക ഇപ്പോൾ ഞാൻ ഒരു പുതിയ കോളം കോൾ vec4 ചേർക്കാൻ പോകുന്നു അതിൽ 10 20 30 40 എൻ ട്രികൾ അടങ്ങിയിരിക്കുന്നു കൂടാതെ നിങ്ങൾ ഇതിലേക്ക് ഒരു പുതിയ നിര ചേർത്ത് പുതിയ ഡാറ്റ ഫ്രെയിം അച്ചടിക്കുമ്പോൾ നിലവിലുള്ള ഡാറ്റാ ഫ്രെയിമിലേക്ക് ഈ വെക് 4 ചേർത്തുവെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു ഡാറ്റാ ഫ്രെയിമിലെ വരികളും നിരകളും എങ്ങനെ ഇല്ലാതാക്കാമെന്ന് ഇപ്പോൾ ഞങ്ങൾ കാണും വരികളും നിരകളും ഇല്ലാതാക്കാൻ നിരവധി മാർഗങ്ങളുണ്ട് അവയിൽ ചിലത് ഒരു വരി അല്ലെങ്കിൽ നിര ഇല്ലാതാക്കാൻ ഞങ്ങൾ കാണും നിങ്ങൾ ആദ്യം ആ വരി ആക് സസ് ചെയ്യുകയും ആ അടയ് ക്കുന്നതിന് മുമ്പ് ഒരു നെഗറ്റീവ് ചിഹ്നം ചേർക്കുകയും വേണം നിങ്ങൾ ആ വരികൾ ഇല്ലാതാക്കണമെന്ന് ഇത് സൂചിപ്പിക്കുന്നു അതിനാൽ മൂന്നാം വരി ഇല്ലാതാക്കാനും ഈ കമാൻഡ് ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്ന ആദ്യ നിരയും ഇല്ലാതാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ ഡാറ്റാ ഫ്രെയിമിൽ നിന്ന് ഇപ്പോൾ ഇവിടെ ഉദാഹരണം നോക്കാം അതിനാൽ മൂന്നാം വരി ഇല്ലാതാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഞാൻ മൂന്നാമത്തെ വരി തിരഞ്ഞെടുത്ത് അതിനുമുമ്പ് ഒരു നെഗറ്റീവ് ചിഹ്നം ചേർക്കുക അതുപോലെ ഞാൻ ആ നിര തിരഞ്ഞെടുത്ത ഒരു നിര ഇല്ലാതാക്കാനും ആ നിരയ്ക്ക് മുമ്പ് ഒരു നെഗറ്റീവ് ചിഹ്നം ചേർക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു df2 അച്ചടിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ പുതിയ ഡാറ്റാ ഫ്രെയിം df2 ലേക്ക് നിയോഗിക്കുന്നു ഞങ്ങൾക്ക് കോളം വെക്റ്റർ ഇല്ലാത്ത ഫലങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഞങ്ങൾക്ക് വെക്റ്റർ 3 ഇല്ല അതാണ് ഞങ്ങൾ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഈ കമാൻഡ് ഞങ്ങൾ സൃഷ്ടിച്ച ഡാറ്റാ ഫ്രെയിമിൽ നിന്ന് 3 ആം നിര ഇല്ലാതാക്കുമെന്ന് ഞങ്ങൾ കണ്ടതിനാൽ വരികളുടെയും നിരകളുടെയും സോപാധികമായ ഇല്ലാതാക്കാനും ഞങ്ങൾക്ക് കഴിയും അതിനാൽ വിശദീകരണം ഇപ്രകാരമാണ് വെക്റ്റർ 3 ഇല്ലാത്ത ആ നിരകളിലേക്ക് പ്രവേശിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന നിരകളിലെ എല്ലാ വരികളും ആക് സസ് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഡാറ്റ ഫ്രെയിം ഞങ്ങളുടെ പക്കലുണ്ട് അതായത് വെക്റ്റർ 2 വെക്റ്റർ 4 വെക്റ്റർ ഒന്ന് എന്നിവ ആക് സസ് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഈ എക് സ് ക്ലാമേറ്ററി ചിഹ്നം നിരയുടെ പേര് വെക്റ്റർ 3 ഉള്ള നിരകളോട് ഇല്ലെന്നും 3 ൽ നിന്ന് ഡാറ്റ അച്ചടിക്കുമ്പോൾ 3 മുതൽ ഡാറ്റയിലേക്ക് ഞാൻ അത് നിയോഗിക്കുന്നുവെന്നും നിങ്ങൾക്ക് അവിടെ അത് കാണാൻ കഴിയും ഡാറ്റയിലെ കോളം വെസി 3 അല്ല ഞങ്ങൾ തിരയുന്ന ഫ്രെയിം ഈ കമാൻഡ് ഉപയോഗിച്ച് ഞങ്ങൾക്ക് ഒരു എൻട്രി 3 ഉള്ള വരികളും ഇല്ലാതാക്കാൻ കഴിയും അതിനാൽ നിങ്ങൾ ഇവിടെ പറയുന്നത് വെക്റ്റർ 1 ലെ ഘടകം 3 അല്ലാത്ത വരികളിലേക്ക് പ്രവേശിക്കുക എന്നതാണ് ഞങ്ങൾ എല്ലാ നിരകളും ആക്സസ് ചെയ്യേണ്ടതുണ്ട് അതിനാൽ df df4 ൽ നിന്ന് ഞങ്ങൾ ആ 2 ഡാറ്റ നൽകുന്നു നിങ്ങൾ df4 പ്രിന്റുചെയ്യുമ്പോൾ എൻട്രി 3 ഉള്ള വരി ഡാറ്റ ഫ്രെയിമിൽ നിന്ന് ഇല്ലാതാക്കുമെന്ന് ഞങ്ങൾക്ക് കാണാൻ കഴിയും ഡാറ്റാ ഫ്രെയിമിലെ വരികൾ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നും ഫാക്ടറി പ്രശ്നമായി വിളിക്കുന്നതിനെക്കുറിച്ചും ഇപ്പോൾ ഞങ്ങൾ കാണും നിങ്ങൾ നൽ കുന്ന ഡാറ്റയിലേക്ക് ഡാറ്റാ തരങ്ങൾ നൽ കുന്നതിന് ആർ ക്ക് ഇൻ ബിൽറ്റ് സ്വഭാവമുണ്ട് നിങ്ങൾ സംഖ്യാ വേരിയബിളുകൾ നൽകുമ്പോൾ പ്രതീക വേരിയബിളുകൾ നൽകുമ്പോൾ ലഭ്യമായ എല്ലാ സംഖ്യാ വേരിയബിളുകളും ഇത് അറിയാം ഇത് വിഭാഗങ്ങളോ ഘടക നിലകളോ ആയി നിങ്ങൾ നൽകുന്ന പ്രതീക വേരിയബിളുകൾ എന്തും എടുക്കും ഇവ മാത്രമാണ് ഇപ്പോൾ ലഭ്യമായതെന്ന് ഇത് അനുമാനിക്കുന്നു മൂന്നാം വരി മൂന്നാമത്തെ നിരയിലെ ഘടകം മറ്റുള്ളവർക്ക് മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അത് മുന്നറിയിപ്പ് സന്ദേശം പ്രദർശിപ്പിക്കും ഈ മറ്റുള്ളവ വർ ഗ്ഗീയ വേരിയബിൾ ലഭ്യമല്ല മാത്രമല്ല ഇത് എൻ എ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുകയും ചെയ്യുന്നു മറ്റുള്ളവർ അവിടെ ഉണ്ടായിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലം ഞങ്ങൾക്ക് ഒരു എൻ എ ഉണ്ട് ഞങ്ങൾക്ക് കഴിയും മുന്നറിയിപ്പ് സന്ദേശത്തിൽ പദ ഘടകത്തിന്റെ ഉപയോഗവും ഘടക പ്രശ് നത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നതും ഇപ്പോൾ ചോദ്യമാണ് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ R ലെ പുതിയ എൻ ട്രികൾ ഇതിനകം നിർ വ്വചിച്ച ഘടക നിലകളുമായി പൊരുത്തപ്പെടണം ഇല്ലെങ്കിൽ ആ പിശക് സന്ദേശം അച്ചടിക്കും ഈ പ്രശ്നം സംഭവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഡാറ്റ സ്വയം നിർവചിക്കുന്നതിനിടയിലാണ് നിങ്ങൾ മറ്റൊരു വാദം പാസാക്കേണ്ടതുണ്ട് സ്ഥിരസ്ഥിതിയായി ഘടകങ്ങളായി സ്ട്രിംഗുകൾ തെറ്റാണെന്ന് ഇത് പറയുന്നു സ്ട്രിംഗ് പ്രതീകങ്ങൾ പുതിയ സ്ട്രിംഗ് പ്രതീകങ്ങളായി മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഈ മുന്നറിയിപ്പ് സന്ദേശം ലഭിക്കുന്നതിന്റെ കാരണം ഇതാണ് ഒരു ഘടകമായി മൂന്നാമത്തെ വരി മൂന്നാമത്തെ ഘടകം മറ്റുള്ളവരിലേക്ക് മാറ്റാനും എൻ എ ഇല്ലെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഡാറ്റ ഫ്രെയിം അച്ചടിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന അതേ കൃത്രിമത്വം ചെയ്യാൻ ശ്രമിക്കുക ഞങ്ങൾ എന്താണ് നേടിയത് ഞങ്ങൾക്ക് വേണം ഈ പ്രഭാഷണത്തിൽ ഡാറ്റ എങ്ങനെ സൃഷ്ടിക്കാമെന്നും ഡാറ്റാ ഫ്രെയിമിന്റെ വരികളും നിരകളും എങ്ങനെ ആക്സസ് ചെയ്യാമെന്നും ഒരു ഡാറ്റ ഫ്രെയിമിന്റെ വരികളും നിരകളും എങ്ങനെ ഇല്ലാതാക്കാമെന്നും ഫ്രെയിമുകൾ ചെയ്യുന്നു അടുത്ത പ്രഭാഷണത്തിൽ ഡാറ്റാ ഫ്രെയിമുകളിൽ ചെയ്യാൻ കഴിയുന്ന മറ്റ് ചില പ്രവർത്തനങ്ങൾ ഞങ്ങൾ കാണാൻ പോകുന്നു